ഈ കോഴ്സിന്റെ ഭൂരിഭാഗവും പ്രശ്നങ്ങൾക്ക് കാര്യക്ഷമമായ പരിഹാരം തിരിച്ചറിയുന്നതിനാണ് ചില സാഹചര്യങ്ങളുണ്ടെന്ന് മനസിലാക്കേണ്ടതും പ്രധാനമാണ് അവിടെ അറിയപ്പെടുന്ന കാര്യക്ഷമമായ പരിഹാരങ്ങളൊന്നും പുറത്തുകടക്കുന്നില്ല നമുക്ക് ഇത് തിരിച്ചറിയാൻ കഴിയും അതിനാൽ പരിഹാരങ്ങൾ തേടാൻ നമ്മൾ ഫലപ്രദമായി ശ്രമിക്കരുത് അവിടെ പ്രശ്നം പരിഹരിക്കാൻ പ്രയാസമാണ് അതിനാൽ സങ്കീർണ്ണത ഉൾപ്പെടുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ കണ്ട നിരവധി പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒപ്റ്റിമo കോമ്പിനേഷനായി എത്തിച്ചേരാനുള്ള നിരവധി സാധ്യതകളിലൂടെ തിരയാൻ നമ്മൾ ശ്രമിക്കുന്നു യഥാർത്ഥ തിരയൽ ഇടം എക്സ്പോണൻഷ്യൽ ആണ് നമ്മൾ ഹ്രസ്വമായ പാതകളാണ് തിരയുന്നതെങ്കിൽ എക്സ്പോണൻഷ്യൽ പാതകളുണ്ട് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീയെയാണ് നമ്മൾ തിരയുന്നതെങ്കിൽ തിരയാൻ അത്തരം വിശാലമായ ട്രീയുടെ എക്സ്പോണൻഷ്യൽ എണ്ണം ഉണ്ട് നമ്മൾ പരമാവധി ഫ്ലോയിനായി തിരയുകയാണ് അരികുകളിൽ ഫ്ലോ ചേർക്കാനും കുറയ്ക്കാനും നമുക്ക് നിരവധി മാർഗങ്ങളുണ്ട് സാധ്യമായ എല്ലാ ഫ്ലോകളും സാധ്യമായ എല്ലാ പാതകളും സാധ്യമായ എല്ലാ ട്രീകളും പരിശോധിച്ച് ഒപ്റ്റിമo തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് ഒരു ബ്രൂട്ട് ഫോഴ്സ് പരിഹാരമായിരിക്കും അത് എക്സ്പോണൻഷ്യൽ സമയം എടുക്കും നമുക്ക് ഒരു പോളിനോമിയൽ ടൈം അൽഗോരിതം ഉള്ളപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എക്സ്പോണൻഷ്യലുകളിലൂടെയും വളരെ കടുത്ത രീതിയിലും മുറിക്കുകയാണ് നമ്മുടെ തിരയൽ ഇടം എക്സ്പോണൻഷ്യൽ ഒന്നിൽ നിന്ന് ഒരു പോളിനോമിയലിലേക്ക് കുറയ്ക്കുന്നു ഒരാൾ ദീർഘനേരം മതിയായതും കഠിനാധ്വാനവും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും അത്തരം കാര്യക്ഷമമായ ഒരു ഷോർട്ട് കട്ട് കണ്ടെത്തും അവിടെ എക്സ്പോണൻഷ്യൽ സ്പേസ് വഴി വെട്ടിക്കുറയ്ക്കാനും സ്ഥലം ഒരു പോളിനോമിയലിലേക്ക് വേഗത്തിൽ ചുരുക്കാനും കഴിയും കാര്യക്ഷമമായ പരിഹാരം നമുക്ക് ആവശ്യമുള്ള യഥാർത്ഥ പരിഹാരം പുറത്തുവരുന്ന യാഥാർത്ഥ്യങ്ങളുടെ എണ്ണം ഇപ്പോൾ നിർഭാഗ്യവശാൽ ഈ അനുയോജ്യമായ ലോകം യഥാർത്ഥത്തിൽ ലോകത്തിന്റെ രീതിയിലല്ല നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനാൽ കാര്യക്ഷമമായ അൽഗോരിതം നിലവിലില്ല അല്ലെങ്കിൽ നിലവിലുണ്ടെന്ന് അറിയില്ല നിർഭാഗ്യവശാൽ ഈ പ്രശ്നങ്ങളിൽ പലതും വളരെ പ്രധാനപ്പെട്ട പ്രായോഗിക പ്രശ്നങ്ങളാണ് ഈ ചർച്ചയിൽ പ്രവേശിക്കുന്നതിന് തമ്മിലുള്ള പ്രശ്നം പരിഹാരം സൃഷ്ടിക്കുന്നതും പരിഹാരം പരിശോധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഒരു സ്കൂൾ കണക്ക് ടീച്ചർ ഇനിപ്പറയുന്ന ഗൃഹപാഠം നൽകുന്നുവെന്ന് കരുതുക രണ്ട് പ്രൈം നമ്പറുകളുടെ ഉൽപ്പന്നമെന്ന് അറിയപ്പെടുന്ന ഒരു വലിയ സംഖ്യ എടുത്ത് ഈ രണ്ട് പ്രൈം നമ്പറുകൾ കണ്ടെത്തുക വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടിൽ പ്രശ്നങ്ങൾ പരിഹാരം സൃഷ്ടിക്കുക എന്നതാണ് അതിനാൽ N എന്ന വലിയ സംഖ്യ നൽകിയാൽ വിദ്യാർത്ഥി p q എന്നീ രണ്ട് പ്രൈം നമ്പറുകൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് p തവണ q N ന് തുല്യമാണ് ഇപ്പോൾ വിദ്യാർത്ഥി സമർപ്പിക്കുകയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവരുടെ പരിഹാരങ്ങൾ അധ്യാപകന് മൂല്യനിർണ്ണയത്തിനായി സമർപ്പിക്കുകയോ ചെയ്യുന്നു അധ്യാപകൻ കൂടുതൽ മെച്ചപ്പെട്ട ആളാണ് അധ്യാപകന് p q എന്നിവ സൃഷ്ടിക്കുന്നത് തുടരേണ്ടതില്ല അധ്യാപകന് ഉത്തരം അറിയേണ്ട ആവശ്യമില്ല അധ്യാപകന് വിദ്യാർത്ഥി നൽകിയ ഉത്തരം എടുത്ത് p തവണ q കൊണ്ട് ഗുണിച്ച് p തവണ q N ന് തുല്യമാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയും അതിനാൽ ഉത്തരം അറിയാതെ അല്ലെങ്കിൽ ഉത്തരം തെറ്റാണെങ്കിൽ പോലും അധ്യാപകന് ശരിയായ ഉത്തരം അറിയില്ലായിരിക്കാം ശരിയായ ഉത്തരം നൽകിയതാണോ അല്ലയോ എന്ന് അധ്യാപകന് തീരുമാനിക്കാൻ കഴിയും അധ്യാപകൻ ചെയ്യുന്നത് വിദ്യാർത്ഥി ചെയ്യാൻ ശ്രമിച്ച പരിഹാരം പരിശോധിക്കുക അല്ലെങ്കിൽ പരിഹാരം സൃഷ്ടിക്കുക എന്നതാണ് ഇത് ഒരു ചെക്കിംഗ് അൽഗോരിതം സംബന്ധിച്ച ചില ധാരണ നൽകുന്നു നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് ഒരു ചെക്കിംഗ് അൽഗോരിതം ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും എല്ലാ സന്ദർഭങ്ങളിലും എനിക്ക് ആ ഉദാഹരണത്തിന് ഒരു പരിഹാരം എടുക്കാനും ആ പരിഹാരം യഥാർത്ഥത്തിൽ സാധുതയുള്ളതാണോ എന്ന് വേഗത്തിൽ പരിശോധിക്കാനും കഴിയും അൽഗോരിതം പരിശോധിക്കുന്നത് പ്രശ്നത്തിന് ഒരു ഇൻപുട്ട് എടുക്കുന്നു ഇത് ഒരു പരിഹാരം മാത്രമല്ല പരിഹാരവും കൂടാതെ ചില അധിക വിവരങ്ങളും ആയിരിക്കും എന്നിട്ട് ഇത് സാധുവായ പരിഹാരമാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നു അങ്ങനെയാണെങ്കിൽ പരിഹാരം ശരിയാണ് കൂടാതെ S ഔട്ട്പുട്ട് ചെയ്യുന്നു അല്ലാത്തപക്ഷം അത് ഇല്ല എന്ന് പറയുന്നു ഫാക്ടറൈസേഷൻ ഉദാഹരണത്തിന് മുമ്പുള്ള നമ്മുടെ ഉദാഹരണത്തിൽ ഇൻപുട്ട് ഇൻസ്റ്റൻസ് ഫാക്റ്ററൈസ് ചെയ്യേണ്ട N നമ്പറാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയെന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്ന പരിഹാരം വിദ്യാർത്ഥി കണക്കാക്കിയ പ്രൈമുകൾ p q എന്നിവയാണ് കൂടാതെ ചെക്കിംഗ് അൽഗോരിതം p തവണ q യഥാർത്ഥത്തിൽ N ആണെന്ന് സ്ഥിരീകരിക്കുന്നു ഈ സന്ദർഭത്തിൽ ബൂളിയൻ തൃപ്തികരമായ ഒരു ചെക്കിംഗ് അൽഗോരിതം ഉള്ള വളരെ കാനോനിക്കൽ പ്രശ്നം നോക്കാം നമുക്ക് x y z എന്നീ ചില ബൂളിയൻ വേരിയബിളുകൾ ഉണ്ട് ബൂളിയൻ വേരിയബിളുകൾക്ക് മൂല്യങ്ങൾ ശരിയോ തെറ്റോ എടുക്കാൻ കഴിയും കൂടാതെ ബൂളിയൻ വേരിയബിളുകളിൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്രവർത്തനമുണ്ട് നിഷേധം ശരി ട്രാൻസിറ്റ് തെറ്റായതും വിവേകശൂന്യവുമായ വാക്യങ്ങളുടെ മൂല്യം എടുക്കുന്നു അതിനാൽ ചില പ്രോഗ്രാമിംഗ് ഭാഷാ പദങ്ങൾ ഉപയോഗിച്ച് ഈ ആശ്ചര്യചിഹ്നത്തിലൂടെ നമ്മൾ എഴുതുന്നു അതിനാൽ x അല്ല ഇത് ആശ്ചര്യചിഹ്നം x ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് x അല്ലെങ്കിൽ y ഉണ്ട് അതിൽ ഒരെണ്ണമെങ്കിലും ശരിയാണെങ്കിൽ x എന്നത് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ y ശരിയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും ശരിയാണെങ്കിൽ x അല്ലെങ്കിൽ y ശരിയാണെങ്കിൽ ഈ വെർടിക്കൽ ബാർ അല്ലെങ്കിൽ ജോഡി ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന വെർടിക്കൽ ബാറുകളും ഒരു ആമ്പർസാൻഡും ഉപയോഗിക്കുക AND x y എന്നിവ രണ്ടും ശരിയാണെങ്കിൽ മാത്രം ശരിയാണ് അതിനാൽ x ശരിയായിരിക്കണം y ശരിയായിരിക്കണം ഒന്നുകിൽ ഒന്ന് തെറ്റാണ് x y എന്നിവ തെറ്റാണ് അതിനാൽ ബൂളിയൻ വേരിയബിളുകളെക്കുറിച്ച് നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് ബൂളിയൻ പ്രവർത്തനമാണിത് ഇപ്പോൾ നമ്മൾ വളരെ പ്രത്യേക രൂപത്തിൽ ബൂളിയൻ ഫോര്മുലാസ് സജ്ജമാക്കി നമ്മൾ ആദ്യം പറഞ്ഞത് ക്ലോസുകൾ നിർമ്മിക്കുക എന്ന് അതിനാൽ ക്ലോസ് ഒരു വലിയ വിച്ഛേദമാണ് അത് x അല്ലെങ്കിൽ y അല്ലെങ്കിൽ z അല്ല അകത്തെ വിഘടനം അല്ലെങ്കിൽ വേരിയബിളുകൾ അല്ലെങ്കിൽ അവയുടെ നിർദേശങ്ങൾ എന്താണ് ഇവയെ ലിറ്ററൽ എന്ന് വിളിക്കുന്നു അതിനാൽ അക്ഷരാർത്ഥം ഒരു വേരിയബിൾ അല്ലെങ്കിൽ നിരസിച്ച വേരിയബിൾ ആണ് ക്ലോസ് x അല്ലെങ്കിൽ y അല്ലെങ്കിൽ z ഡോട്ട് ഡോട്ട് ഡോട്ട് അല്ലെങ്കിൽ ഡബ്ല്യു അതിനാൽ ഇത് ഒരു ഉപവാക്യമാണ് ഒടുവിൽ AND ബന്ധിപ്പിച്ച അത്തരം ക്ലോസുകളുടെ സംയോജനമായിരിക്കും ഒരു ഫോർമുല സി ചില x അല്ലെങ്കിൽ y അല്ലെങ്കിൽ എന്തോ ആയിരിക്കും D കുറച്ച് z അല്ലെങ്കിൽ y അല്ലെങ്കിൽ എന്തോ ആയിരിക്കും ഓരോ ക്ലോസിനും അക്ഷരങ്ങളുടെ വലിയ വിഭജനത്തിന്റെ ഈ ഘടന ഉണ്ടാകും തുടർന്ന് അവയെ ഒരു ആമ്പർസാൻഡും സംയോജിപ്പിക്കും അതിനാൽ അവയെല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു എനിക്ക് സി ക്ലോസ് ശരിയാക്കേണ്ടതുണ്ട് കൂടാതെ എനിക്ക് ക്ലോസ് ഡി ശരിയാക്കേണ്ടതുണ്ട് കൂടാതെ ക്ലോസ് ഇ ശരിയാക്കേണ്ടതുണ്ട് x y z എന്നിവയ്ക്ക് അനുയോജ്യമായ മൂല്യങ്ങൾ നൽകി ഈ തന്നിരിക്കുന്ന ഫോർമുല ശരിയാക്കാനാകുമോയെന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം സമവാക്യത്തിലെ എല്ലാ വേരിയബിളുകളും ഇതിനെ വാല്യുവേഷൻ എന്ന് വിളിക്കുന്നു X എന്നത് ശരിയാണ് y തെറ്റാണ് z ശരിയാണ് എന്നിങ്ങനെ പറയുന്ന ഒരു ഫംഗ്ഷനാണ് വാല്യുവേഷൻ അതിനാൽ ഇത് ഓരോ ബൂളിയൻ വേരിയബിളിന്റെയും മൂല്യം പരിഹരിക്കുന്നു ഇപ്പോൾ എനിക്ക് വിലയിരുത്താൻ കഴിയുമെന്ന് പരിഹരിച്ചുകൊണ്ട് ഉദാഹരണത്തിന് ഞാൻ x സത്യമാണെന്നും y സത്യമാണെന്നും z തെറ്റാണെന്നും എടുത്താൽ ഇവിടെ നിന്ന് ഈ ഉപവാക്യത്തിൽ നിന്ന് x എന്നത് ശരിയാണ് അതിനാൽ മുഴുവൻ ഉപവാക്യവും ശരിയാക്കാൻ ഇത് മതിയാകും y യും ശരിയാണ് ഉദാഹരണത്തിന് ഈ ക്ലോസിൽ x ശരിയാണ് അതിനാൽ ഈ ഭാഗം ശരിയാണ് x ശരിയാണ് ഇവിടെ അത് y ശരിയാണെന്നും z തെറ്റാണെന്നും പറയുന്നു ഇവ രണ്ടും യഥാർത്ഥത്തിൽ ശരിയാണ് ഇപ്പോൾ ഇവിടെ അത് x തെറ്റാണെന്ന് x അല്ല x ശരിയാണ് അതിനാൽ x തെറ്റല്ല നമ്മുടെ വിലയിരുത്തലുകളിലൂടെ y ശരിയാണ് y തെറ്റല്ല പക്ഷേ ഭാഗ്യവശാൽ z തെറ്റാണ് അതിനാൽ z ശരിയല്ല ഈ ഓരോ ഉപവാക്യത്തിലും ഈ വാല്യുവേഷന് കീഴിൽ ലിറ്ററല്സിൽ ഒരാളെങ്കിലും ശരിയാകുന്നു അതിനാൽ ഈ ഫോർമുല യഥാർത്ഥത്തിൽ സംതൃപ്തമാണ് ഇപ്പോൾ അതേ ഫോര്മുലയിലേക്ക് എനിക്ക് ഈ അധിക ഉപവാക്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് വിശദീകരിക്കുന്നു x y z എന്നിവയ്ക്ക് യഥാർത്ഥ തെറ്റ് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗവും കണ്ടെത്താൻ ഒരു മാർഗവുമില്ല ഈ പ്രത്യേക വാല്യുവേഷൻ പ്രവർത്തിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും കാരണം ഞാൻ ഇത് നോക്കിയാൽ x ശരിയാണ് അതിനാൽ ഇത് പ്രവർത്തിക്കുന്നില്ല കൂടാതെ z തെറ്റാണെന്ന് ഇത് പറയുന്നു അതിനാൽ ഇത് പ്രവർത്തിക്കുന്നില്ല z തെറ്റാണ് z ശരിയല്ല x ശരിയാണ് x തെറ്റല്ല അതിനാൽ ഇത് തെറ്റാണ് ഈ ഉപാധി യഥാർത്ഥത്തിൽ തെറ്റാണെന്ന് വിലമതിക്കുന്നു ആദ്യ ഫോർമുല ശരിയാക്കുന്ന ഈ പ്രത്യേക വിലയിരുത്തൽ രണ്ടാമത്തെ ഫോർമുല ശരിയാക്കില്ല പ്രത്യേകിച്ചും ഒരു വാല്യുവേഷനും അത് ശരിയാക്കില്ല നിങ്ങൾ ഈ മൂന്ന് ഉപവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ പരിശോധിക്കാൻ കഴിയും ഇത് y എന്നത് x എന്ന് സൂചിപ്പിക്കുന്നതുപോലെ പറയാൻ കഴിയും ഇത് പറയുന്നത് y സത്യമാണെങ്കിൽ x ശരിയായിരിക്കണം Z പറയുന്നത് ശരിയാണെങ്കിൽ y ശരിയായിരിക്കണം എന്നും ഇത് x ശരിയാണെങ്കിൽ z ശരിയായിരിക്കണമെന്നും ഇത് പറയുന്നു x y z എന്നിവയെല്ലാം ഒന്നായിരിക്കണം എന്ന് ഇത് കൂടുതലോ കുറവോ പറയുന്നു എന്നാൽ x y z എന്നിവയെല്ലാം ഒരുപോലെയാണെങ്കിൽ അവസാനത്തേതിൽ ആദ്യത്തേതിൽ ഒന്ന് തെറ്റായിരിക്കും യഥാർത്ഥത്തിൽ തൃപ്തികരമായ ഒരു നിയമനവുമില്ല തൃപ്തികരമായ ഒരു നിയമനം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഒരു പരിഹാരം സൃഷ്ടിക്കുന്നതിന് തീർച്ചയായും x y z എന്നിവ ഓരോന്നും നിയോഗിക്കാൻ ശ്രമിക്കുക എന്നതാണ് ബ്രൂട്ട് ഫോഴ്സ് സമീപനം ശരി തെറ്റ് എന്നിട്ട് തിരിയുക തുടർന്ന് നമ്മൾ x y z എന്നിവ ശരിയും തെറ്റും എന്ന് നിർണ്ണയിച്ചു ഫോർമുല ശരിയാണോ എന്ന് നമുക്ക് വിലയിരുത്താനും പരിശോധിക്കാനും കഴിയും മാത്രമല്ല സാധ്യമായ എല്ലാ അസൈൻമെന്റുകൾക്കും നമ്മൾ ഇത് പരീക്ഷിക്കുകയും ചെയ്യും N വേരിയബിളുകളുണ്ടെങ്കിൽ അവയിൽ ഓരോന്നിനും രണ്ട് സാധ്യതകളുണ്ട് വ്യക്തമായി N ന് 2 ഉണ്ട് സാധ്യമായ അസൈൻമെന്റുകളുടെ എക്സ്പോണൻഷ്യൽ എണ്ണം ഇപ്പോൾ അതിശയകരമായ കാര്യം ഈ പ്രശ്നത്തിന് പൊതുവെ മെച്ചപ്പെട്ട അൽഗോരിതം അറിയപ്പെടുന്നില്ല കാര്യങ്ങൾ നിലകൊള്ളുമ്പോൾ ഈ ഫോമിൽ ഒരു ഫോർമുല എടുത്ത് അത് തൃപ്തികരമായ ഒരു അസൈൻമെന്റ് ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള കാര്യക്ഷമമായ മാർഗം നമുക്കറിയില്ല എന്നിരുന്നാലും ഇതിന് ഒരു പരിഹാരം പരിശോധിക്കാൻ കഴിയുന്ന ഒരു അൽഗോരിതം ഉണ്ടോയെന്ന് പരിശോധിക്കുന്നത് എളുപ്പമാണ് അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർമുല നൽകുകയും ഒരു നിർദ്ദിഷ്ട വാല്യുവേഷൻ യഥാർത്ഥത്തിൽ തൃപ്തികരമായ ഒരു അസൈൻമെന്റാണെന്ന് ഞാൻ അവകാശപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് മുമ്പത്തെ കേസിൽ നമ്മൾ ചെയ്തതുപോലെ ഞാൻ ആ അസൈൻമെന്റ് പ്ലഗ് ഇൻ ചെയ്യുന്നു ഞാൻ പരിഗണിക്കുന്നു സമയം കാണുക 0925 V x ശരിയാണ് എല്ലായിടത്തും സി എക്സ് ആയി ശരിയാക്കട്ടെ നിങ്ങൾ വി വൈ തെറ്റാണെന്ന് പറയുന്നു സി വൈയിൽ എല്ലായിടത്തും തെറ്റുപറ്റട്ടെ എന്നിട്ട് ഫോർമുല വിലയിരുത്തുക കണ്ടെത്തുക AND കൾക്കും OR നും ഒരു യഥാർത്ഥ ഉത്തരം ഉണ്ടോ ഇല്ലയോ എന്നത് അതിനാൽ ഇതിന് ചെക്കിംഗ് അൽഗോരിതം ഉണ്ടെന്ന് കാണാൻ എളുപ്പമാണ് പക്ഷേ ഇതിന് ഒരു ജനറേറ്റിംഗ് അൽഗോരിതം ഇല്ല കുറഞ്ഞത് നമുക്ക് ഒരു പാത അറിയില്ല ഈ സാഹചര്യത്തിൽ അത് ദയവായി തിരിയുക മറ്റ് കേസുകളും ഇതാണ് ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചുള്ള അവതരണം പ്രധാനമാണ് ഒരു ഉപവാക്യം അക്ഷരാർത്ഥങ്ങളുടെ വിഭജനമാണെന്ന് നമ്മൾ പറഞ്ഞു തുടർന്ന് ഫോർമുല ക്ലോസുകളുടെ സംയോജനമായിരുന്നു എന്താണ് വിപരീതമായി പറയുന്നത് എന്താണ് ക്ലോസുകൾ അക്ഷരങ്ങളുടെ സംയോജനമെന്ന് പറയുന്നത് അതിനാൽ ഒരു ഉപവാക്യത്തിൽ ഞാൻ എല്ലാം AND മായി ബന്ധിപ്പിക്കുന്നു തുടർന്ന് ഞാൻ ക്ലോസുകൾ OR മായി ബന്ധിപ്പിക്കുന്നു ഇതിനർത്ഥം ഞാൻ C അല്ലെങ്കിൽ D അല്ലെങ്കിൽ E ശെരി ആക്കണം എന്നാണ് നേരത്തെ ഞാൻ സി ശെരി ആക്കും ഡി ശെരി ആക്കും ഇ ശെരി ആക്കും എന്നിവ ചെയ്യുകയായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു ഉപവാക്യത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു സംയോജനം ഞാൻ എങ്ങനെ തെളിയിക്കും നിങ്ങൾ ചുവപ്പ് കാണുന്നു ഞാൻ ഇത് ഓരോന്നും ശരിയാക്കണം അല്ലെങ്കിൽ എല്ലാം ശരിയാക്കണം ഇത് മുഴുവനും പരാജയപ്പെടും അതിനാൽ ഞാൻ ഒരു ഉപവാക്യം എടുക്കുകയാണെങ്കിൽ ക്ലോസ് ഫോർ ഉള്ളിലെ വേരിയബിളുകളുടെ ക്രമീകരണം അത് x ശരിയായിരിക്കണം y ആയിരിക്കരുത് y ശരിയായിരിക്കണം അതിനാൽ y തെറ്റായിരിക്കണം z ശരിയായിരിക്കണം എന്നിങ്ങനെ അതിനാൽ എനിക്ക് കൂടുതൽ ചോയ്സ് ഇല്ല ഇപ്പോൾ ഒരു ഉപവാക്യത്തിനുള്ളിൽ ഞാൻ y അല്ലെന്നും പിന്നെ മറ്റെവിടെയെങ്കിലും y കാണാനിടയുണ്ട് അത്തരമൊരു കാര്യം എന്നോട് y ശെരിയും y തെറ്റും പറയാൻ ആവശ്യപ്പെടുന്നുവെന്ന് പറയും ഈ ഉപാധി ശരിയാകാൻ കഴിയില്ല തുടർന്ന് ഞാൻ അടുത്തതിലേക്ക് പോകുന്നു ഞാൻ ഓരോ ഉപവാക്യവും നോക്കുന്നു അതുല്യമായ വാല്യുവേഷൻ ഇത് വിശ്വസനീയമാണോ അതോ പ്രായോഗികമാണോ എന്ന് ഞാൻ പരിശോധിക്കുന്നു അത് അസാധുവാണെങ്കിൽ കാരണം എനിക്ക് ഒരു ഉപവാക്യം മാത്രമേ തൃപ്തിപ്പെടുത്തേണ്ടതുള്ളൂ മറ്റ് വഴികൾ അടുത്തതിലേക്ക് ഞാൻ നീങ്ങുന്നു ഇടത് നിന്ന് വലത്തോട്ട് ഒരു ലീനിയർ സ്കാനിൽ എനിക്ക് അടിസ്ഥാനപരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഇത് എനിക്ക് ഈ ഫോമിൽ നൽകിയിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ രൂപത്തിൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ കാര്യക്ഷമമായ അൽഗോരിതം ഇല്ല അതിനാൽ അവതരണം ഉപയോഗിച്ച് മായ്ക്കുന്നത് പ്രശ്നം പ്രധാനമാണ് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രശ്നം നോക്കാം ഈ അറിയപ്പെടുന്ന ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രശ്നം നമുക്ക് ഉണ്ട് സെയിൽസ്മാൻ നഗരങ്ങളുടെ ഒരു ശൃംഖല സന്ദർശിക്കേണ്ടതുണ്ട് ഒപ്പം ഓരോ ജോഡി നഗരങ്ങൾക്കിടയിലും നമുക്ക് ഒരു ദൂരമുണ്ട് അതിനാൽ ഇത് ഒരു സമ്പൂർണ്ണ ഗ്രാഫ് ആണെന്ന് നമുക്ക് ചിന്തിക്കാനാകും മറ്റെല്ലാ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഓരോ നഗരവും രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള ഓരോ അരികിലും ഒരു നഗരത്തിൽ നിന്ന് അടുത്ത നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു കാരണത്തിന്റെ ദൂരം അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ ഉപയോഗിക്കേണ്ട അളവ് സൂചിപ്പിക്കുന്ന ഒരു ഭാരം ഉണ്ട് ഈ മാപ്പിലെ എല്ലാ നഗരങ്ങളും സന്ദർശിക്കുക എന്നതാണ് സെയിൽസ്മാന്റെ ലക്ഷ്യം അതിനാൽ ഓരോ നഗരവും കൃത്യമായി ഒരു തവണ സന്ദർശിക്കുന്ന ഏറ്റവും ചെറിയ ടൂർ കണ്ടെത്താൻ സെയിൽസ്മാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഒരു ഗ്രാഫ് തിയട്രിക്സ് അർത്ഥമാക്കുന്നത് അവ ലളിതമായ ചക്രം എന്നാണ് ലളിതമായ ചക്രം എന്നാൽ നോഡുകളൊന്നും ആവർത്തിക്കില്ല എന്നാണ് ഒരേ നഗരത്തിന്റെ ആരംഭവും അവസാനവും ഉള്ള ഈ കാര്യങ്ങളിൽ ഞാൻ ഒരേ വെർടെക്സ് രണ്ടുതവണ സന്ദർശിക്കുന്നില്ല അതിനാലാണ് ഒരു സൈക്കിൾ ആരംഭിക്കുന്നത് ഒരേ നഗരത്തിന്റെ അറ്റങ്ങൾ അതിനിടയിലും കുറഞ്ഞ ചെലവിലുമുള്ള എല്ലാ വെർടെക്സുകളും സന്ദർശിക്കുക ഒരു നിമിഷം ഒരു ജനറേറ്റീവ് അൽഗോരിതം എഴുതാൻ ലളിതമായ മാർഗ്ഗമില്ല അത് യഥാർത്ഥത്തിൽ വിശകലനം ചെയ്യുകയും ഒരു നല്ല പരിഹാരം കണ്ടെത്തുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ ചോദ്യം ഒരു പരിശോധന പരിഹാരമുണ്ടോ ഒരു ചെക്കിംഗ് അൽഗോരിതം ഉണ്ടോ എന്നതാണ് ഒരു ചെക്കിംഗ് അൽഗോരിതം ചെയ്യുന്നത് ഇൻപുട്ടായി എടുക്കുന്നു അത് ഒരു ഇൻപുട്ട് ഉദാഹരണമെടുക്കുന്നു അത് ഒരു പരിഹാരം എടുക്കുന്നു തുടർന്ന് അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നു ഈ പരിഹാരം പ്രവർത്തിക്കുന്നു ഈ പരിഹാരം പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് ഉണ്ട് ആരെങ്കിലും നമുക്ക് ഒരു സൈക്കിൾ നൽകുന്നു അത് ഒരു സൈക്കിൾ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും അതിനാൽ ആ കണികകൾ നമുക്ക് സൈക്കിളിന്റെ വിലയും എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും പക്ഷേ എല്ലാ വ്യത്യാസ ചക്രങ്ങൾക്കിടയിലും ഇത് കുറഞ്ഞ ചിലവാണെന്ന് നമുക്കെങ്ങനെ അറിയാം ചെക്കിംഗ് അൽഗോരിതം ഉണ്ടെന്ന് വളരെ വ്യക്തമല്ല കാരണം അവസാനം ഈ പരിഹാരത്തിന്റെ ഒരു ഭാഗം നമുക്ക് പരിശോധിക്കാൻ കഴിയുമെങ്കിലും ഇത് ഒരു ചക്രം അതാണ് എല്ലാ നഗരങ്ങളും ഇത് ചിലവാണെന്ന് നമ്മൾക്കറിയാം പ്രശ്നം പരിഹരിക്കാതെ നമുക്ക് ഒരു മാർഗവുമില്ല അൽഗോരിതം പരിശോധിക്കുന്നതിലുള്ള ലക്ഷ്യം പ്രശ്നം പരിഹരിക്കലല്ലെന്ന് ഓർക്കുക തന്നിരിക്കുന്ന ഈ പരിഹാരത്തിന് ഈ പരിഹാരം ശരിയാണോ എന്ന് ചോദിക്കുക എന്നതാണ് പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് അറിയില്ലായിരിക്കാം ഫാക്ടറൈസേഷൻ ഹോം വർക്ക് നിയുക്തമാക്കിയ അധ്യാപകനെപ്പോലെ അധ്യാപകന് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യണമെന്ന് അറിയില്ല ഇത് ഘടകങ്ങൾ പോലും അറിയേണ്ടതില്ല ടീച്ചർക്ക് മാത്രമേ അറിയേണ്ടതുള്ളൂ സാധ്യതയുള്ള ഘടകങ്ങളിലേക്ക് എങ്ങനെ ഗുണിക്കാം ഉത്തരം വലിയ സംഖ്യയ്ക്ക് തുല്യമാണോ എന്ന് പരിശോധിക്കുക അതുപോലെ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് തന്നിരിക്കുന്ന നോഡുകൾ ഒരു സൈക്കിൾ ഉണ്ടാക്കുന്നുണ്ടോ പക്ഷേ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ചെക്കിംഗ് അൽഗോരിതം ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള സൈക്കിൾ ആണോ എന്ന് മനസിലാക്കാൻ കഴിയില്ല നമുക്ക് എങ്ങനെ ഒരു രൌണ്ട് ലഭിക്കും അത്തരം ഒപ്റ്റിമൈസേഷൻ പ്രശ്നങ്ങളാണ് പരിഹാരം പരിശോധിക്കുന്ന അൽഗോരിതം ആക്കി മാറ്റുന്നത് ഒരു പരിധി നൽകിക്കൊണ്ട് പ്രശ്നത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് അതിനാൽ ഞാൻ മുകളിലുള്ള പരിധി അല്ലെങ്കിൽ ഔട്ട് അനുസരിച്ച് താഴ്ന്ന പരിധി നൽകി അതിനാൽ ഈ സാഹചര്യത്തിൽ ഒരു ടൂർ ഉണ്ടോ എന്ന് ചോദിക്കുകയല്ലനമ്മൾ ചോദിക്കുക ഏറ്റവും കുറഞ്ഞ ചിലവിൽ ട്രാവൽ സെയിൽസ് മെൻ ടൂർ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവിൽ ടൂർ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു നമ്മൾ ഇപ്പോൾ ചിലവ് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഒപ്റ്റിമൽ ടൂർ ആവശ്യപ്പെടുന്നില്ല നമ്മൾ ഒരു ടൂർ മാത്രം ചോദിക്കുന്നതിലൂടെ കെ യേക്കാൾ കൂടുതൽ ചെലവാകില്ല ഇപ്പോൾ നമ്മൾ ഒരു പരിഹാരം നൽകി നമുക്ക് ഇത് പരിശോധിക്കാൻ കഴിയും കാരണം ഇത് ഒരു സൈക്കിൾ ആണെന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും തുടർന്ന് ടൂറിന്റെ ഭാഗമാകുന്ന എല്ലാ എട്ജെസും ചേർത്ത് അത് കെ അല്ലെങ്കിൽ എസ് എന്നിവയ്ക്ക് നിരക്കാത്തതാണോ എന്ന് കണ്ടെത്താനാകും അതിനാൽ നമ്മളെ എങ്ങനെ സഹായിക്കാം കാരണം നമ്മുടെ ലക്ഷ്യം ഏറ്റവും ഹ്രസ്വമായ ടൂർ കണ്ടെത്തുകയായിരുന്നു നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഒരു പരിധി വരെ വലുപ്പമുള്ള ഒരു ടൂർ നൽകിയാൽ അതെ അല്ലെങ്കിൽ ഇല്ല എന്നതിന് എനിക്ക് ചെക്കിംഗ് അൽഗോരിതം ഉപയോഗിക്കാം പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യത്യസ്ത കേസ് പരീക്ഷിക്കാൻ കഴിയും നമുക്ക് K യുടെ ഏറ്റവും കുറഞ്ഞ മൂല്യം വ്യക്തമായി 0 ഉം പരമാവധി മൂല്യം ചില പരിധിക്ക് മുകളിലുമാണ് എന്താണ് നല്ല അപ്പർ ബൌണ്ട് ഒരു ടൂർ മുകളിൽ നിന്ന് ഒരു എഡ്ജ് എടുക്കാൻ പോകുന്നുവെന്ന് നമുക്കറിയാം ഞാൻ ഗ്രാഫിലെ എല്ലാ എട്ജെസും എടുത്ത് എല്ലാ ചെലവും കൂട്ടുകയാണെങ്കിൽ മൊത്തം ടൂർ അതിനേക്കാൾ കൂടുതലാകരുത് അതിനാൽ ഗ്രാഫിലെ എല്ലാ എഡ്ജ് വെയ്റ്റുകളുടെയും ആകെത്തുക പറയാൻ 0 മുതൽ ടൂറിന്റെ ചെലവ് വരെ എനിക്ക് മൂല്യങ്ങളുടെ ഒരു ശ്രേണി സാധ്യമാണ് അതിനേക്കാൾ മികച്ച പരിധിയിൽ നിങ്ങൾ കണ്ടെത്തിയേക്കാം കാരണം വ്യക്തമായും നമുക്ക് എല്ലാ എഡ്ജ് വെയ്റ്റുകളും ഉപയോഗിക്കാൻ കഴിയില്ല n ന്റെ വലിപ്പമുള്ള ഒരു ചക്രം പൂർത്തിയാക്കാൻ നമുക്ക് അവയിൽ N മാത്രമേ ഉപയോഗിക്കാനാകൂ പക്ഷേ ഇത് വളരെ സംരക്ഷിത പരിധിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ശ്രേണിയിൽ നമ്മൾ ബൈനറി തിരയൽ നടത്തുന്നു അതിനാൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ആരുടെ ചിലവ് ഒരു വഴിയാണെന്ന് ഒരു ടൂർ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചുവടെ പരിശോധിക്കും ഒരു ടൂർ ചെലവ് അതിന്റെ പകുതിയാണോ എന്ന് അതിനാൽ ഒരു ബൈനറി തിരയൽ നടത്തുന്നതിലൂടെ നമ്മൾ കാര്യം ചുരുക്കി അവസാനമായി ഇതാണ് ലെവൽ നമുക്ക് ഒരു ടൂർ ഉണ്ട് അതിനെക്കുറിച്ച്നമുക്ക് ടൂറുകൾ ഉണ്ട് അതിനു താഴെയായി നമുക്ക് ടൂറുകൾ ഇല്ല അതിനാൽ ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ ടൂറാണ് ഒരു ബൈനറി തിരയലും മുകളിലത്തെ ബൌണ്ടും ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒപ്റ്റിമൈസേഷൻ പ്രശ്നം തേടാനും ഒപ്റ്റിമൽ ഉത്തരം തേടാനും പ്രശ്നങ്ങൾ പരിശോധിക്കുന്ന ഒരു ശ്രേണിയിലേക്ക് പരിവർത്തനം ചെയ്യാനും കഴിയും ഈ അതിരുകളിലൂടെ ഒരു ലോഗരിഥമിക് തിരയലിന് ശേഷം എനിക്ക് യഥാർത്ഥമായ പരിഹാരം നൽകും അല്ലെങ്കിൽ ഇല്ല അതിനാൽ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് ഇതിനെ സ്വതന്ത്ര സെറ്റ് ബാർ എന്ന് വിളിക്കുന്നു രണ്ട് വെർട്ടീസസുകൾ സ്വതന്ത്രമാണെന്ന് നമ്മൾ പറഞ്ഞു അവയുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു എഡ്ജ് ആണ് ഉദാഹരണത്തിന് 1 7 എന്നിവ ഇവിടെ നിങ്ങൾ നന്നായി നോക്കുന്നു തുടർന്ന് സ്വതന്ത്രമായി കണക്ഷനുകളൊന്നുമില്ല അതിനാൽ 6 ഉം 5 ഉം സ്വതന്ത്രമായിരിക്കാം അതിനാൽ കുറച്ച് എഡ്ജ് ഉണ്ടെങ്കിൽ രണ്ട് വെർടീസസ് സ്വതന്ത്രമാണെന്ന് പറയുന്നു ഇപ്പോൾ ഞാൻ 1 ഉം 7 ഉം എടുത്ത് ഈ സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് സ്വതന്ത്രമാണ് പക്ഷേ ഞാൻ ഇതിലേക്ക് 5 ചേർത്താൽ ഉദാഹരണത്തിന് ഇപ്പോൾ 5 ഉം 7 ഉം ഒരു അരികിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇവ സ്വതന്ത്രമല്ല ഓരോ ജോഡിയും സ്വതന്ത്രമായ ഒന്നാണ് ഒരു സ്വതന്ത്ര സെറ്റ് അതിനാൽ 1 ഉം 7 ഉം ഒരു സ്വതന്ത്ര സെറ്റാണ് എന്നാൽ 1 5 7 ഒരു സ്വതന്ത്ര സെറ്റ് അല്ല കാരണം 5 7 ന്യൂട്രൽ ആണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് 3 4 5 ഫോമുകൾ സ്വതന്ത്ര സെറ്റിൽ പരിശോധിക്കാൻ കഴിയും കാരണം 3 നും 4 നും ഇടയിലല്ല 4 നും 5 നും ഇടയിൽ ഒരു എട്ജും ഇല്ല 3 നും 5 നും ഇടയിൽ ഒരു എട്ജുമില്ല കാരണം ഉദാഹരണത്തിന് നിങ്ങൾ ഈ നോഡുകളെ ആളുകളായി വ്യാഖ്യാനിക്കുകയും നിങ്ങൾ പരസ്പരം അറിയുന്നതുപോലെ എട്ജുകൾ നോഡ് ചെയ്യുകയും ചെയ്യുന്നുവെന്ന് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അവിടെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പതിവുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു സ്വതന്ത്ര അഭിപ്രായങ്ങൾ അതിനുമുമ്പുള്ള അവർ അറിഞ്ഞ വസ്തുതകളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വതന്ത്ര സെറ്റ് എടുക്കാൻ കഴിയും ഒരു സ്വതന്ത്ര സെറ്റ് പരസ്പരം അറിയാത്ത ആളുകളെ സൃഷ്ടിക്കുന്നു അവർ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ പരസ്പരം പരസ്പരം നിഷ്പക്ഷ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു സ്വാതന്ത്ര്യ സെറ്റ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണിത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സെറ്റ് കണ്ടെത്തുക എന്നതാണ് അൽഗോരിതം പ്രശ്നം ഇവിടെ നമ്മൾ വലിപ്പം 3 ന്റെ സ്വാതന്ത്ര്യ സെറ്റിൽ കണ്ടെത്തി എനിക്ക് കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുമോ ഒപ്പം വലുപ്പം 4 ൽ ഒന്ന് കണ്ടെത്താം ഒരുപക്ഷേ ഇല്ലായിരിക്കാം അതിനാൽ എന്റെ അൽഗോരിതം പ്രശ്നം ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സെറ്റ് എന്താണെന്ന് ഒരു ഗ്രാഫ് നൽകിയാൽ അതിൽ എനിക്ക് കണ്ടെത്താൻ കഴിയും നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഇത് ഒരു ഉത്തരം ലഭിക്കേണ്ട ഒരു പ്രശ്നമാണ് അതിനാൽ 3 4 5 പരമാവധി സ്വാതന്ത്ര്യ സെറ്റാണെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ എനിക്ക് 3 4 5 കാരണ സ്വാതന്ത്ര്യ സെറ്റ് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും പക്ഷേ വലിയ സെറ്റ് ഇല്ലെങ്കിൽ എനിക്ക് അത് സ്ഥിരീകരിക്കാൻ കഴിയില്ല യാത്രാ സെല്ലുകൾക്ക് ഒരു പ്രശ്നം പോലെയാണ് ഇത് എനിക്ക് നൽകിയ ടൂർ ഒരു ലളിതമായ ചക്രമാണെന്ന് എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമെങ്കിലും ടൂറിന്റെ ചിലവ് അത്തരത്തിലുള്ളവയിൽ ഏറ്റവും മികച്ചതാണെന്ന് എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ വീണ്ടും ഏത് ചെക്കിംഗ് പതിപ്പാണ് പ്രശ്നം സജ്ജമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽനമ്മൾ സജ്ജീകരിക്കും കെ യുടെ ഒരു സ്വതന്ത്ര സെറ്റ് ഉണ്ടോ എന്ന് പറയും നമ്മൾ ഏറ്റവും വലുത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അതിനാൽ നിങ്ങൾ പറയും കുറഞ്ഞ വലുപ്പം K ഞാൻ കുറഞ്ഞത് 3 വലുപ്പമെങ്കിലും ഇതിന്റെ ഉൽപ്പാദനം നടത്തുകയാണെങ്കിൽ കുറഞ്ഞത് 3 വലുപ്പമെങ്കിലും ഞാൻ പരിശോധിക്കും കുറഞ്ഞത് 4 വലുപ്പമെങ്കിലും ഇത് എന്റെ സാക്ഷിയാണ് ഇതാണ് എന്റെ പരിഹാരം ഞാൻ വേണ്ട എന്ന് പറയും അതിനാൽ യാത്രാ സെയിൽസ്മാൻമാരെപ്പോലെ സ്വാതന്ത്ര്യം വീണ്ടും സജ്ജമാക്കി ബൂളിയൻ കഴിവ് തൃപ്തിപ്പെടുത്തുന്നു ഒരു നല്ല ഉൽപാദന പരിഹാരത്തെക്കുറിച്ച് നമുക്കറിയില്ല എന്നാൽ ഈ ബൌണ്ടഡ് പതിപ്പ് ഉപയോഗിക്കുന്നതിലൂടെ ദാതാവിന്റെ നമ്പർ അളവുകളാൽ നമുക്ക് പരിശോധനാ പതിപ്പുകൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് കണക്കാക്കാൻ ശ്രമിക്കുന്നു ബന്ധപ്പെട്ട ലുക്കിംഗ് പ്രശ്നം ഇതിനുള്ള ആപേക്ഷിക പ്രശ്നത്തെ വെർട്ടെക്സ് കവർ എന്ന് വിളിക്കുന്നു ഉദാഹരണമായി നിങ്ങൾ എല്ലാ അരികുകളും ഉൾക്കൊള്ളുന്ന ഒരു നോഡ് എന്ന് നമ്മൾ പറയുന്നു ഉദാഹരണത്തിന് ഞാൻ ഈ നോഡ് എടുക്കുകയാണെങ്കിൽ ഇത് ഈ മൂന്ന് ഈ നാല് അരികുകളും ഉൾക്കൊള്ളുന്നു കാരണം ഈ അരികുകളെല്ലാം ആരംഭിച്ചു ഇപ്പോൾ എല്ലാ അരികുകളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് വെർട്ടെക്സ് കവർ ഉദാഹരണത്തിന് ആ അരികുകളിൽ 2 കവർ എടുക്കുക ഇപ്പോൾ ഈ അരികുകൾ ഇല്ല ഒരുപക്ഷേ അത് മൂടിവയ്ക്കാൻ ഞാൻ 3 എടുക്കും അതിനാൽ ഈ കവറുകളിൽ ഞാൻ 3 എടുക്കുന്നു ഈ അരികുകളിൽ ഇപ്പോഴും ചില നഷ്ടമായ അരികുകളുണ്ട് അതിനാൽ ഞാൻ 7 എടുക്കും അതായത് 7 ഈ മൂന്ന് അരികുകളും ഉൾക്കൊള്ളുന്നു ഈ സ്ടാറിലെ എല്ലാ അരികുകളും ഉൾക്കൊള്ളുന്ന 1 2 3 വെർടീസസിന്റെ ഒരു ശേഖരം ഞാൻ കണ്ടെത്തി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നൽകിയ ഗ്രാഫിൽ ഈ ഏറ്റവും ചെറിയ വെർട്ടെക്സ് കവർ കണ്ടെത്തുക എന്നതാണ് വീണ്ടും ഇത് പൊതുവെ ഏറ്റവും ചെറിയതെങ്ങനെയെന്ന് നമുക്കറിയാത്തതിനാൽ നമ്മൾ പറയും ഏറ്റവും കൂടുതൽ പറയുന്ന ഏത് വെർട്ടെക്സ് കവറും നമ്മൾ എടുക്കും ഉദാഹരണത്തിന് കെ നീക്കംചെയ്യൽ ഏറ്റവും ചെറുതാണെങ്കിൽ അതിനാൽ യാത്ര ചെയ്യുന്ന സെയിൽസ്മാൻമാരെപ്പോലെയാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ടൂറിൽ പോകുന്നത് അതിനാൽ ഇത് ഞാൻ പറഞ്ഞതിനേക്കാൾ കുറവോ തുല്യമോ ആയ ഒരു ടൂർ ഉണ്ടെന്ന് പറയുന്നു ഒരു വെർടെക്സ് കവർ കുറവാണെങ്കിൽ ചെലവ് സജ്ജമാക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഈ രണ്ട് പ്രശ്നങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് 3 വലുപ്പത്തിൽ ഒരു വെർട്ടെക്സ് കവർ ഉണ്ട് അത് 3 ൽ സൂചിപ്പിച്ചിരിക്കുന്നു കണക്ഷൻ യു ഒരു സ്വതന്ത്ര വലിപ്പത്തിലുള്ള കെ ആണെങ്കിൽ അത് അതിന്റെ വലിപ്പം എൻ മൈനസ് കെ പൂർത്തിയാക്കിയാൽ മാത്രം അതിനാൽ നമ്മുടെ കാര്യത്തിൽ യു 3 4 5 ഒരു വലുപ്പം 3 ന്റെ ഒരു വെർടെക്സ് സ്വാതന്ത്ര്യമായിരുന്നു അതിന്റെ പൂരകമാകുമ്പോൾ N മൈനസ് കെ വലുപ്പത്തിന്റെ ഒരു വെർടെക്സ് കവർ ആയിരിക്കണം അതിനാൽ ഒരു നിശ്ചിത വലുപ്പത്തിന് വെർട്ടെക്സ് കവർ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ എൻ മൈനസ് കെ യുടെ സ്വാതന്ത്ര്യ സെറ്റ് പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ കഴിയും എനിക്ക് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യാനും തെളിവ് ഇത് വളരെ എളുപ്പമാണ് ഒരു സ്വതന്ത്ര സെറ്റ് ഉപയോഗിച്ച് ഒരു സ്വതന്ത്ര സെറ്റിൽ ഉപയോഗിക്കുക പിന്നെ യു എന്നിനുള്ളിൽ മാത്രമല്ല എന്ന് എനിക്കറിയാം ഏതെങ്കിലും വി U V എടുക്കുന്നതിലൂടെ ഒന്ന് U നുള്ളിലാണെങ്കിൽ മറ്റൊന്ന് U ന് പുറത്തായിരിക്കണം അല്ലെങ്കിൽ രണ്ട് N പോയിന്റുകളും പുറത്തായിരിക്കണം അതിനാൽ ഞാൻ ഏതെങ്കിലും എഡ്ജ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അവസാന പോയിന്റുകളിലൊന്നെങ്കിലും വി മൈനസ് യുയിലാണ് താമസിക്കുന്നത് വി മൈനസ് യു എല്ലാ അരികുകളും ഉൾക്കൊള്ളുന്നു അതിനാൽ വി മൈനസ് യു ചില വെർടീസസുകൾ തീർച്ചയായും ഇത് കെ വെർട്ടീസുകളായി കണക്കാക്കുമ്പോൾ മറ്റൊന്ന് എൻ മൈനസ് കെ വെർട്ടീസുകൾ ഉണ്ടായിരിക്കണം നേരെമറിച്ച് വി മൈനസ് യു ഒരു വെർട്ടെക്സ് കവറാണെന്ന് ഞാൻ കരുതുന്നു തുടർന്ന് എല്ലാ അരികുകളും അവിടെ നിന്ന് ആരംഭിക്കുന്നു ഓരോ അരികും അവിടെ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ അതിലൊന്ന് അവസാനിക്കുന്ന പോയിന്റുകളുണ്ട് അതിനാൽ പൂർണ്ണമായും പൂരകത്തിനുള്ളിലുള്ള ഒരു അവസാനം എനിക്ക് ഉണ്ടാകാൻ കഴിയില്ല കാരണം ഇതുപോലുള്ള ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ വെർട്ടെക്സ് കവറിൽ മൂടാത്ത ഒരു എഡ്ജ് അതിനാൽ അവ യുയിൽ ഒരു അരികുകളും ആകാൻ കഴിയില്ല അതിനാൽ യു ഒരു സ്വാതന്ത്ര്യ സെറ്റാണ് വീണ്ടും വലുപ്പങ്ങൾ ഉറപ്പുനൽകുന്നു കാരണം അവയുടെ പൂരക തിരയൽ ഒരു വെർടെക്സ് ആണ് അതിനാൽ സ്വാതന്ത്ര്യ സെറ്റ് പൂരക വലുപ്പത്തോടുകൂടിയ വെർട്ടീസ് കവറിലേക്ക് കുറയ്ക്കുന്നുവെന്ന് ഇത് പറയുന്നു ഇത് ബൌണ്ടഡ് വെർട്ടീസസ് പതിപ്പും വെർട്ടെക്സ് കവറും സ്വാതന്ത്ര്യ സെറ്റിലേക്ക് കുറയ്ക്കുന്നു അതിനാൽ പരസ്പരം കുറയ്ക്കുക ലീനിയർ പ്രോഗ്രാമിംഗിന്റെയും നെറ്റ്വർക്ക് നിലകളുടെയും മത്സരത്തിൽ റിഡക്റ്റബിലിറ്റി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കാര്യക്ഷമമായ പരിഹാരം ബിയിൽ നിന്ന് എയിലേക്ക് മാറ്റുക എന്നതാണ് ഒരു ലക്ഷ്യം അതിനാൽ ഞാൻ എയെ ബി ആക്കി കുറയ്ക്കുമ്പോൾ ബി കാര്യക്ഷമമാണെങ്കിൽ എ കാര്യക്ഷമമാണ് എന്നാൽ ഈ മത്സരത്തിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇത് കാര്യക്ഷമമാണെന്ന് അറിയില്ല അതും കാര്യക്ഷമമാണെന്ന് അറിയില്ല സ്വതന്ത്രമായി അത് കാര്യക്ഷമമല്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനാൽ വെർട്ടെക്സ് കവർ കുറയ്ക്കുന്നതിനാൽ വെർട്ടെക്സ് കവർ കാര്യക്ഷമവും ശരിയായതുമായ ഉറവിടങ്ങളാകാൻ സാധ്യതയുണ്ട് അതിനാൽ പരിശോധിക്കാവുന്ന നിരവധി ജോഡി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം പുനർനിർമ്മിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു സൈക്കിൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ടെത്താം ബിയിലേക്ക് കുറയ്ക്കുക ബി സിയിലേക്ക് കുറയ്ക്കുക സി പിന്നിലേക്ക് കുറയ്ക്കുക ആ അർത്ഥത്തിൽ അവയെല്ലാം ഒരുപോലെ എളുപ്പമുള്ളതോ തുല്യമായി കഠിനമോ ആയതിനാൽ അവയൊന്നും ഇതുവരെ ആരും പരിഹരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവരെല്ലാം കഠിനമായി പ്രവർത്തിക്കണമെങ്കിൽ ഇത് ഒരു വലിയ കൂട്ടം പ്രശ്നങ്ങളുണ്ടെന്ന വിശ്വാസത്തിന് കാരണമാകുന്നു അവയുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ പ്രായോഗികമാണ് എന്നാൽ അറിയിപ്പ് കാര്യക്ഷമമായി പരിഹരിക്കുമെന്ന് അറിയില്ല അവ കണക്കിലെടുക്കുമ്പോൾ അൽഗോരിതം കാര്യക്ഷമതയെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും നമ്മുടെ അവസാന പ്രഭാഷണത്തിൽ ഇത് കുറച്ചുകൂടി വിശദമായി നോക്കാം